ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആൻഡ് കൺട്രോൾ കോഴ്സിലെ മൂന്നാം അധ്യായത്തിലേക്ക് സ്വാഗതം ഈ അധ്യായത്തിൽ ഓട്ടോമേഷൻ പിരമിഡിലെ ലെവൽ 0 യിൽ നിന്നാണ് ആണ് ആരംഭിക്കുന്നത് പ്രധാനമായും മെഷർമെൻറ് സിസ്റ്റംസ് അഥവാ സെൻസർസ് ആണ് നാം പഠിക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന കുറച്ചു ക്ലാസുകളിൽ മെഷർമെൻറ് സിസ്റ്റത്തെക്കുറിച്ച് ആയിരിക്കും നാം പഠിക്കുക അതിനുമുമ്പ് നമുക്ക് പൊതുവായുള്ള മെഷർമെൻറ് സിസ്റ്റത്തെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചും പഠിക്കാം പ്രബോധന ലക്ഷ്യങ്ങൾ താഴെ പറഞ്ഞിരിക്കുന്നവയാണ് ആദ്യമായി സെൻസർസിന്റെയും ഉപകരണങ്ങളുടെയും സ്റ്റാറ്റിക് ക്യാരക്ടർസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുശേഷം കാലിബറേഷൻ എന്താണ് എറർസ് എങ്ങനെ വിശകലനം ചെയ്യാം ഡൈനാമിക് ഇൻപുട്ട്സിനോട് ഫസ്റ്റ് ആൻഡ് ആൻഡ് സെക്കൻഡ് ഓർഡർ സെൻസർസിന്റെ റെസ്പോൺസ് വിശദീകരിക്കാം അവസാനമായി ചില ഇൻഡസ്ട്രിയൽ സെൻസറിന്റെ പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കാം ആദ്യമായി മെഷർമെൻറ് സിസ്റ്റത്തിൻറെ പൊതുവായുള്ള ഘടന മനസ്സിലാക്കാം എല്ലാ മെഷർമെൻറ് സിസ്റ്റംസും ഇതിലെ ഒന്നോ അതിലധികമോ ഘടകങ്ങൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ മെഷറാൻഡ് അതായത് നാം അളക്കാൻ ശ്രമിക്കുന്ന മർദ്ദം താപനില പോലെയുള്ള സിഗ്നൽസ് ഉള്ളത് ഈ സിഗ്നൽ ആണ് ഇവിടെയുള്ള സെൻസിംഗ് എലമെൻറിൽ പതിക്കുന്നത് യഥാർത്ഥത്തിൽ സെൻസിംഗ് എന്നാൽ നാം അളക്കാൻ ശ്രമിക്കുന്നത് എന്തിനെയാണ് എന്നതിനെ ആശ്രയിച്ച് കണ്ടിന്യൂസ് എനർജിയെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ് അതായത് മെക്കാനിക്കൽ ഒപ്റ്റിക്കൽ തെർമൽ തുടങ്ങിയ രൂപത്തിൽ നിന്നും ഇലക്ട്രിക്കൽ രൂപത്തിലേക്കുള്ള പരിവർത്തനം ആണിത് ഇലക്ട്രിക്കൽ സിഗ്നൽ ഔട്ട്പുട്ട് ലേക്ക് എത്തും മുൻപ് ഡിജിറ്റൽ രൂപത്തിലേക്കും മറ്റും പരിവർത്തനം ചെയ്യപ്പെടുന്നു ഈ ബ്ലോക്ക്സിലൂടെയാണ് പരിവർത്തനം നടക്കുന്നത് ഇവിടെയാണ് യഥാർഥത്തിലുള്ള മർദ്ദം താപനില തുടങ്ങിയ ഇൻപുട്ട്സ് ഉള്ളത് സെൻസിംഗ് എലമെൻറ് ഇൻപുട്ടിൽ രൂപമാറ്റം നടത്തി ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രിക്കൽ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നു ഇത് ഒന്നുകിൽ റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് എന്നിവയിലെ മാറ്റം അല്ലെങ്കിൽ വോൾട്ടേജ് കറൻറ് എന്നീ രൂപങ്ങളിൽ ആയിരിക്കും ഇവ സിഗ്നൽ കണ്ടീഷനിംഗ് എലമെൻറ്സ് വഴി വീണ്ടും കൈകാര്യം ചെയ്യപ്പെടുന്നു ചിലപ്പോൾ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യപ്പെടാം മറ്റു ചിലപ്പോൾ റെസിസ്റ്റൻസ് വോൾട്ടേജ് ആയി കൈമാറ്റം ചെയ്യപ്പെടാം പൊതുവേ ഈ ലെവലിൽ സിഗ്നൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രിക്കൽ രൂപമായ വോൾട്ടേജ് ആയിരിക്കും പക്ഷേ അതിനുശേഷം സിഗ്നൽ പ്രോസസിംഗ് വഴി നോയ്സ് ഇല്ലാതാക്കുകയും സിഗ്നലിനെ ലീനിയർ ആക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് സിഗ്നൽ അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആകാം അവസാനമായി സിഗ്നൽ ഡേറ്റ പ്രെസൻറ്റേഷൻ എലമെന്റിലേക്കു പോകുന്നു ഇവിടെയാണ് ഡേറ്റ ഉപയോഗിക്കപ്പെടുന്നത് ഇത് പ്രെസൻറ്റേഷൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ എലമെൻറ് ആകാം അതുകൊണ്ട് ഇത് ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ റെക്കോർഡർ അല്ലെങ്കിൽ ഒരു കൺട്രോളർ ഇങ്ങനെ എന്തും ആകാം ഇതാണ് മെഷർമെൻറ് സിസ്റ്റത്തിൻറെ പൊതുവായുള്ള ഘടന ഇനിയൊരു ഉദാഹരണം എടുക്കാം ഒരു വെയിറ്റ് മെഷർമെൻറ് സിസ്റ്റത്തിൽ ട്രൂ വെയിറ്റ് ആണ് ഇൻപുട്ട് ഒരു മെക്കാനിക്കൽ ഘടകമായ ലോഡ് സെൽ ഇതിനെ സെൻസ് ചെയ്തു സ്റ്റ്രയിൻ ആക്കി മാറ്റുന്നു മറ്റൊരു ഘടകമായ സ്റ്റ്രയിൻ ഗേജ് സ്റ്റ്രയിൻ നെ റെസിസ്റ്റൻസ് ആക്കി മാറ്റുന്നു ഈ രണ്ട് സെൻസിങ് എലമെൻറ്സിനു ശേഷം സിഗ്നലിനെ നാം വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന ഇലക്ട്രിക്കൽ സർക്യൂട്ടിലേക്ക് ലേക്ക് കടത്തിവിടുന്നു ഇത് റസിസ്റ്റൻസ് മാറ്റത്തെ ചെറിയ ലെവൽ മില്ലി വോൾട്ട് വോൾട്ടേജ് ആക്കി മാറ്റുന്നു ഇവയാണ് സിഗ്നൽ കണ്ടീഷനിങ് എലമെൻറ്സ് അതിനുശേഷം ഇത് ഒരു ആംപ്ലിഫയർ ലേക്ക് പോകുന്നു ആംപ്ലിഫയർ സിഗ്നലിനെ 0 10 വോൾട്ട്സ് വരെയുള്ള വോൾട്ടേജ് പരിധിയിലേക്ക് ആംപ്ലിഫൈ ചെയ്യുന്നു അതിനുശേഷം ഒരു അനലോഗ് റ്റു ഡിജിറ്റൽ കൺവെർട്ടർ ലൂടെ AD converter കടത്തി വിട്ടതിനു ശേഷം ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് നുവേണ്ടി അയ്ക്കുന്നു അവസാനമായി ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിലേക്ക് അയക്കുന്നു ഇവിടെ നമുക്ക് അളവിനോടൊപ്പം യൂണിറ്റ് കൂടി കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു മെഷർമെൻറ് സിസ്റ്റം കാണപ്പെടുന്നത് അതിനാൽ ഇത് സെൻസർ സിഗ്നൽ കണ്ടീഷണർ സിഗ്നൽ പ്രൊസസർ പോലെയുള്ള ചില കമ്പ്യൂട്ടിംഗ് എലമെൻറ്സ് തുടങ്ങിയ ബ്ലോക്കുകളുടെ കൂട്ടമാണ് So sensing is actually extremely important in automation from various points of view firstly in product quality control because the product quality is actually assessed by sensors themselves by some sort of instruments In process control so if you have a rolling mill and if you want to control the role thickness then the you have to feedback or almost all process control is actually you know a closed loop feedback control about which we are going to learn in the future lessons വിവിധ കാഴ്ചപ്പാടുകളിൽ ഓട്ടോമേഷനിൽ സെൻസിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യമായി ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാര നിയന്ത്രണത്തിലാണ് സെൻസിങിന്റെ പ്രാധാന്യം സെൻസർസ് തന്നെയാണ് ചില ഉപകരണങ്ങളുടെ സഹായത്തോടെ ഉൽപ്പന്നത്തിൻറെ ഗുണനിലവാരം നിർണയിക്കുന്നത് അടുത്തതായി പ്രോസസ് കണ്ട്രോളിൽ ആണ് സെൻസിങിന്റെ പ്രാധാന്യം പ്രോസസ് കൺട്രോൾ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫീഡ്ബാക്ക് കൺട്രോൾ ആണ് ഇതിനെപറ്റി കൂടുതലായി വരും ക്ലാസുകളിൽ പഠിക്കാം നിർണായകമായ എലമെൻറ് ഫീഡ്ബാക്ക് എലമെൻറ് ആണ് തിക്ക്നെസ്സ് അഥവാ താപനില പോലെ നിയന്ത്രിക്കപ്പെടുന്ന വേരിയബിൾ നിരന്തരമായി കൺട്രോൾ സിസ്റ്റത്തിലെ ഒരു സെൻസർ ഉപയോഗിച്ചു ഫീഡ്ബാക്ക് ചെയ്യപ്പെടേണ്ടതുണ്ട് കൺട്രോൾ സിസ്റ്റത്തിന്റെ പ്രകടനം സെൻസറിന് വളരെ നിർണായകമാണ് അതിനാൽ സെൻസിങ്ങിന് കണ്ട്രോളിൽ മുഖ്യമായ പ്രാധാന്യമുണ്ട് അടുത്തതായി പ്രോസസ് നിരീക്ഷണത്തിലും മേൽനോട്ടത്തിലും സെൻസിങിന്റെ പ്രാധാന്യം കാണാൻ സാധിക്കും മെഷീനുകൾ തമ്മിലുള്ള ഏകോപനം വീഴ്ചകൾ കണ്ടെത്തൽ സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കുക ഊർജ്ജം ഫലപ്രദമായി ഉപയോഗിക്കുന്ന സെറ്റ് പോയിന്റ്സ് നൽകുക തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇതെല്ലാം ചെയ്യുന്നതിന് നമുക്ക് സെൻസർസ് ആവശ്യമുണ്ട് അവസാനമായി മാനുഫാക്ചറിങ് ഓട്ടോമേഷനിൽ സെൻസർസ് ആവശ്യമുണ്ട് മാനുഫാക്ചറിങ് ഓട്ടോമേഷൻ സിസ്റ്റംസ് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർസ് ഉപയോഗിച്ച് എങ്ങനെ ഒരുമിച്ച് ചേർക്കാം എന്നു പഠിക്കുമ്പോൾ വിവിധതരം സെൻസറിനെകുറിച്ച് വിശദമായി പഠിക്കാം ഉദാഹരണത്തിന് ലിമിറ്റ് സ്വിച്ചസ് പ്രഷർ സ്വിച്ചസ് കോൺടാക്ട്സ്സ് മുതലായവ ചുരുക്കത്തിൽ സെൻസിംഗിന് ഓട്ടോമേഷനിൽ വളരെയധികം പ്രാധാന്യമുണ്ട് നാം സെൻസറിനെ ഭൌതികമായ ക്വാണ്ടിറ്റിയെകുറിച്ച് വിവരം നൽകുന്ന ഒരു അബ്സ്ട്രാക്റ്റ് എലമെൻറ് ആയി കാണുകയാണെങ്കിൽ സെൻസറിന്റെ സ്വഭാവം ക്യാരക്ടറൈസ് ചെയ്യാൻ സാധിക്കണം അതിനാൽ ഇൻസ്റ്റ്രുമെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് രണ്ടുതരത്തിലുണ്ട് ആദ്യത്തേത് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്നാൽ സ്റ്റഡി സ്റ്റേറ്റ് റീഡിങുമായി മാത്രം ബന്ധപ്പെട്ട ഉപകരണങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഒരു വോൾട്ട് സിഗ്നൽ നൽകിയാൽ 2 വോൾട്ട് സിഗ്നൽ ലഭിക്കുമോ എന്നതാണ് ഇവിടെ കാര്യം 100 ഡിഗ്രി സെൻറിഗ്രേഡ് താപം ഒരു ടെമ്പറേച്ചർ സെൻസറിനു നൽകിയാൽ ലഭിക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും എന്നതു മാത്രമാണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഇൽ നാം ചർച്ച ചെയ്യുന്നത് ഇതിനായി എത്ര സമയം എടുത്തു വോൾട്ടേജ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇവിടെ പ്രസക്തമല്ല 100 ഡിഗ്രി സെൻറിഗ്രേഡ് താപം നൽകിയാൽ അവസാനം ഔട്ട്പുട്ട് ആയി എന്താണ് ലഭിക്കുന്നത് എന്നതിനു മാത്രമാണ് ഇവിടെ പ്രസക്തി സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഡികേറ്റിംഗ് ഇൻസ്ട്രുമെൻസിനു വളരെ പ്രധാനമാണ് ഇൻഡികേറ്റിംഗ് ഇൻസ്ട്രുമെൻസ് സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂസുമായി ബന്ധപ്പെട്ടതാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് വളരെ പ്രധാനമാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് കണ്ട്രോളിൽ ഉദാഹരണത്തിന് താപനില 100 ഡിഗ്രി സെൻറിഗ്രേഡ് ആയി നില നിർത്തേണ്ട ഒരു ഫീഡ്ബാക്ക് കൺട്രോളിന്റെ കാര്യമെടുക്കുക ഇനി ടെമ്പറേച്ചർ സെൻസറിനു 2 ഡിഗ്രി സെൻറിഗ്രേഡ് എറർ ഉണ്ടെന്നു കരുതുക താപനില 98 ഡിഗ്രി സെൻറിഗ്രേഡ് ആയിരിക്കുമ്പോൾ സെൻസർ കരുതുന്നത് ഇത് 100 ഡിഗ്രി സെൻറിഗ്രേഡ് ആണ് എന്നാണ് കൺട്രോളറിന് യഥാർത്ഥ താപനില 98 ഡിഗ്രി സെൻറിഗ്രേഡ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇത് താപനില 100 ഡിഗ്രി സെൻറിഗ്രേഡിൽ നിലനിർത്താൻ ശ്രമിക്കുന്നു ഇതിനെയാണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്നു വിളിക്കുന്നത് ഒന്നാമതായി ഇത്തരം എറർസ് ഉണ്ടാകുന്നത് സെൻസർസിലെ എറർസ് കാരണമാണ് രണ്ടാമതായി ഗയിൻ രൂപ കൽപ്പന ചെയ്യുന്നതുവഴി ഇത് കുറയ്ക്കാൻ സാധിക്കും ചിലപ്പോൾ ഒരു കൃത്യമായ താപനില നിലനിർത്തിയാൽ മാത്രം പോരാ താപനിലയെ ട്രാക്ക് ചെയ്യുക കൂടി വേണം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിലവിലുള്ള റീഡിങ്സ് ശരിയായി ലഭിച്ചെന്നുവരില്ല അവിടെ കൺട്രോളർ ഫേസ് ലാഗ് വികസിപ്പിക്കുന്നു നിർദ്ദേശങ്ങൾ ശരിയായ രീതിയിൽ പിന്തുടരാൻ സാധിക്കില്ല ഇത്തരം സന്ദർഭങ്ങളിൽ സെൻസറിന്റെ ഡൈനാമിക്സ് വളരെ പ്രധാനമാണ് നമുക്ക് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഇവ രണ്ടും പഠിക്കാം ഇവ കാലിബറേഷൻ എന്ന പ്രക്രിയ വഴിയാണ് ലഭിക്കുന്നത് ഒരു ഉപകരണത്തിൻറെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നാം ഉദ്ദേശിക്കുന്നത് ഒരു കൃത്യമായ മൂല്യം നൽകിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് എന്നാണ് നമുക്ക് നിർണയിക്കേണ്ടത് കൃത്യമായ മൂല്യം അറിയുക സാധ്യമല്ല അതിനാൽ ഇത് നിർണയിക്കാൻ ആയി ശാസ്ത്രീയവും സങ്കേതികവുമായി കൂടുതൽ കൃത്യതയാർന്ന മറ്റേതെങ്കിലും ഉപകരണങ്ങളുപയോഗിച്ച് മൂല്യം അളക്കാവുന്നതാണ് ഇതിനെയാണ് കാലിബറേഷൻ എന്നു വിളിക്കുന്നത് കാലിബറേഷൻ എന്നാൽ കാലിബറേറ്റ് ചെയ്യപ്പെടുന്ന ഉപകരണത്തിന്റെയും കൃത്യമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന മറ്റൊരു ഉപകരണത്തിന്റെയും താരതമ്യം ആണ് കാലിബ്രേഷൻ ചെയ്യുമ്പോൾ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ദേശീയ മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കുന്ന ലബോറട്ടറികളിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ വളരെ കൃത്യതയോടെ കാലിബ്രേഷൻ ചെയ്യാവുന്ന ഉപകരണങ്ങൾ ലഭ്യമാണ് പക്ഷേ ഒരു ഷോപ്പ് ഫ്ലോറിൽ കാലിബ്രേഷൻ ചെയ്യുമ്പോൾ ഒരു ഉപകരണവും അന്താരാഷ്ട്ര നിലവാരത്തിൽ കാലിബ്രേറ്റ് ചെയ്യപ്പെടില്ല അതിനാൽ ദ്വിതീയവും തൃതീയവും ആയ മാനദണ്ഡങ്ങൾ ഉള്ള ഉപകരണങ്ങൾ കാലിബ്രേഷനു ഇന്ന് ലഭ്യമാണ് അതിനാലാണ് ഉപകരണത്തേക്കാൾ കൂടുതൽ കൃത്യതയാർന്ന പ്രാഥമിക മാനദണ്ഡം അല്ലെങ്കിൽ ദ്വിതീയ മാനദണ്ഡം എന്നിവയിലേതെങ്കിലും ആയി ഉപകരണം കാലിബ്രേറ്റ് ചെയ്യപ്പെടണം എന്നു പറയുന്നത് ഇവിടെയാണ് കാലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട സെൻസർ ഉപകരണം ഉള്ളത് ഇതാണ് ഒരു കൃത്യമായ മാനദണ്ഡം ഉള്ള ഉപകരണം കൊണ്ട് അളക്കേണ്ട മെഷറാൻഡ് ഇതിനെയാണ് ട്രൂ വാല്യൂ എന്നു വിളിക്കുന്നത് സെൻസർ ഉപകരണം ഈ മെഷർമെൻറ് നൽകുന്നു ഈ മെഷർമെൻറ് വോൾട്ടേജ് ആണെങ്കിൽ ഇത് എത്ര വോൾട്ട് ആണെന്നുള്ളത് ഏതെങ്കിലും ഉപകരണം കൊണ്ട് അളക്കേണ്ടത് ഉണ്ട് വോൾട്ടേജ് ഡിജിറ്റൽ രൂപത്തിൽ ആണെങ്കിൽ അളക്കേണ്ടതില്ല അതല്ലെങ്കിൽ ഏതെങ്കിലും ഉപകരണം കൊണ്ട് മെഷർമെൻറ് അളക്കേണ്ടത് ഉണ്ട് ഇത് ഘടകങ്ങളുടെയും ഫലമാണ് ഉദാഹരണത്തിന് ഇത് താപനിലയുടെ ഫലമാകാം ഭാരം അളക്കുന്ന പ്രക്രിയയുടെ കാര്യം എടുക്കുക ഭാരത്തിൻറെ അളവിനനുസരിച്ച് സ്ട്രെയിൻ ഗേജ് റെസിസ്റ്റൻസ്സിലെ മാറ്റം ഭാരത്തിൻറെ മാത്രം ഫംഗ്ഷൻ അല്ല ഇത് താപനിലയുടെ കൂടി ഫംഗ്ഷൻ ആണ് ഓരോ റെസിസ്റ്റൻസിനും ടെമ്പറേച്ചർ കോയെഫ്ഫിഷ്യന്റ് ഉണ്ടാകും താപനിലയിൽ മാറ്റമുണ്ടായാൽ റെസിസ്റ്റൻസും മാറും അതേപോലെ തടസ്സപ്പെടുത്തുന്ന മറ്റു പല ഇൻപുട്ട്സും ഉണ്ട് പവർ സപ്ലൈയിൽ നിന്നും പവർ ലൈനിൽ നിന്നുമുണ്ടാകുന്ന നോയ്സ് ഒരു ഉദാഹരണമാണ് പ്രത്യേകിച്ച് വ്യവസായിക അന്തരീക്ഷത്തിൽ നോയ്സിന്റെ വളരെയധികം ഉണ്ട് ഈ സിഗ്നൽസ് സെൻസർ മെഷർമെൻറിനെ ബാധിക്കും അതിനാൽ പൊതുവേ കാലിബറേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ താപനില എത്രയാണ് എന്ന് നാം കുറിച്ചു വയ്ക്കേണ്ടതാണ് അതുവഴി അനുസൃതമായ തിരുത്തലുകൾ വരുത്താൻ നമുക്ക് സാധിക്കും ഒരു ഇൻസ്ട്ട്രുമെൻറ് ക്യാരക്ടറൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൻറെ റെസ്പോൺസ് ഇത്തരം ഇൻപുട്ട്സ് ഉപയോഗിച്ച് ക്യാരക്ടറൈസ് ചെയ്യേണ്ടതാണ് ചില സന്ദർഭങ്ങളിൽ തടസ്സം സൃഷ്ടിക്കുന്ന ഇൻപുട്ട്സ് അളക്കുക പ്രയാസമായിരിക്കും അത്തരം സന്ദർഭങ്ങളിൽ ഇവ നിലനിൽക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതാണ് അതിനാൽ ഷീൽഡിങ് ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഒരു വ്യത്യസ്ത സെറ്റിംഗിൽ സെൻസർ എന്തുചെയ്യുന്നു എന്ന് നാം പരിശോധിക്കുന്നു പ്രധാനമായും നാം മെഷറാൻഡ് അളക്കാൻ ശ്രമിക്കുന്നു സെൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു അതുകൂടാതെ ഉപകരണത്തിൻറെ ഔട്ട്പുട്ട് അളക്കാൻ ശ്രമിക്കുന്നു താപനില പോലുള്ള മോഡിഫൈയിങ് ഇൻപുട്ട് അളക്കാൻ ശ്രമിക്കുന്നു അതിനു ശേഷമാണ് ഉപകരണത്തിൻറെ ക്യാരക്ടറിസ്റ്റിക്സ് സ്ഥാപിക്കുന്നത് ഉപകരണം മോഡിഫൈയിങ് ഇൻപുട്ട് കാര്യമായി ബാധിക്കാത്ത തരത്തിൽ നിർമ്മിച്ചിട്ടുള്ളതായതിനാൽ മുഖ്യമായ പ്രാധാന്യം ഉപകരണത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മെഷറാൻഡിനെ എങ്ങനെ ആശ്രയിച്ചിരിക്കുന്നു എന്നതിലാണ് ഇതാണ് നാം ഇനി പഠിക്കാൻ പോകുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉപകരണങ്ങളുടെ 3 വ്യത്യസ്ത മാനദണ്ഡങ്ങൾ നാം കാലിബറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉപകരണം ലബോറട്ടറി മാനദണ്ഡങ്ങൾക്ക് നേരെ കാലിബറേറ്റ് ചെയ്തു നോക്കാം ലബോറട്ടറി മാനദണ്ഡങ്ങൾ തുടർച്ചയായി സെക്കൻഡറി മാനദണ്ഡങ്ങൾക്ക് നേരെ കാലിബറേറ്റ് ചെയ്യണം ചില ടെസ്റ്റ് ഹൌസിൽ മാത്രം നിലവിലുള്ള പ്രത്യേക ഉപകരണങ്ങൾ സെക്കൻഡറി മാനദണ്ഡങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് ഈ ഉപകരണങ്ങൾ തുടർച്ചയായി ഇത്തരം ടെസ്റ്റ് ഹൌസുകളിലേക്ക് അയച്ചു അവയെ കാലിബറേറ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൂടാതെ ഈ ടെസ്റ്റ് ഹൌസ് ഉപകരണങ്ങൾ വളരെ കൃത്യമായ ദേശീയ മാനദണ്ഡങ്ങൾക്ക് നേരെ കാലിബറേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ വർദ്ധിക്കുന്ന കൃത്യത അനുസരിച്ച് പല ലെവലുകളിൽ മാനദണ്ഡങ്ങളുടെ ഒരു ശൃംഖല തന്നെ ഉണ്ട് എല്ലായിപ്പോഴും ഉപകരണങ്ങളെ കാലിബറേറ്റ് ചെയ്യേണ്ടത് ശൃംഖലയിലെ അടുത്ത ലെവലിലെ ഉപകരണങ്ങളുമായി ആണ് നമുക്ക് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം സ്പാനിൽ നിന്ന് ആരംഭിക്കാം ഒരു മെഷറിങ് ഉപകരണത്തിൽ കാലിബ്രേഷന്റെ ഏറ്റവും ഉയർന്ന പോയിൻറ് X2 യൂണിറ്റും താഴ്ന്ന പോയിൻറ് X1 യൂണിറ്റും ആണെന്ന് വെക്കുക ഉപകരണം രണ്ട് ബിന്ദുക്കളുടെ ഇടയിൽ പ്രവർത്തിക്കാനാണ് കാലിബറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത് X2 ബിന്ദുവും ഇത് X1 ബിന്ദുവും ആണ് ഉപകരണത്തിൻറെ റേഞ്ച് ഉയർന്ന ബിന്ദുവായ X2 ആണ് ഇതുവരെ ഉപകരണത്തിന് പ്രവർത്തിക്കാനാകും ഇതിൻറെ സ്പാൻ X2 -X1 ആണ് X2 200 ഡിഗ്രി സെൻറിഗ്രേഡ് X1 40 സെൻറിഗ്രേഡ് ആണെന്നു വയ്ക്കുക ഇതിൻറെ റേഞ്ച് 200 സ്പാൻ 240 എന്നിങ്ങനെയാണ് അടുത്തതായി വളരെ പ്രധാനപ്പെട്ട ഘടകമായ അക്യുറസി അഥവാ കൃത്യതയെക്കുറിച്ച് സംസാരിക്കാം ഉപകരണത്തിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എത്ര ശതമാനത്തിന് അകത്താണ് റീഡിങ് അല്ലെങ്കിൽ സ്പാനിന്റെ കൃത്യത എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ചിലപ്പോൾ 1 ഡിഗ്രി സെൻറിഗ്രേഡ് അധികമോ കുറവോ ആയ ഒരു സ്ഥിരമായ മൂല്യം ആയിരിക്കും നൽകിയിട്ടുണ്ടാവുക സ്പാൻ 100 ഡിഗ്രി സെൻറിഗ്രേഡ് ആണെങ്കിൽ 1 ഡിഗ്രി സെൻറിഗ്രേഡ് എററിനെ സ്പാനിന്റെ 1 ആയി പ്രകടിപ്പിക്കാം അതിനാൽ ഒന്നുകിൽ സ്പാനിന്റെ ശതമാനത്തോട് ഒപ്പം നൽകുന്ന കോൺസ്റ്റൻസ് വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ ഇത് റീഡിങിന്റെ ശതമാനമായിരിക്കും ഒരു റീഡിങ് 100 കൂടാതെ സ്പാൻ അക്യുറസി 1 ശതമാനമാണെന്ന് വെക്കുക അങ്ങനെ ആണെങ്കിൽ റീഡിംഗ് 99 101എന്നീ ഡിഗ്രി സെൻറിഗ്രേഡിന്റെ ഇടയിലായിരിക്കും ഉപകരണം ഉപയോഗിക്കുന്നവർക്ക് ട്രൂ വാല്യൂ ഏത് നിശ്ചിത പരിധിയിൽ നിൽക്കുമെന്ന് അറിയാനാകും പക്ഷേ കൃത്യമായ ട്രൂ വാല്യൂ എന്താണെന്ന് നമുക്കറിയില്ല കാലിബ്രേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രസ്താവിച്ചിരിക്കുന്നത് അടുത്തതായി ലീനിയാരിറ്റി ചർച്ച ചെയ്യാം ഉപകരണങ്ങളുടെ കാലിബ്രേഷൻ കർശനമായ ലീനിയർ കർവ് പാലിക്കില്ല പക്ഷേ ഇത് ലീനിയർ കർവ് ആയി സങ്കൽപ്പിച്ചാൽ വളരെ എളുപ്പത്തിൽ ട്രൂ വാല്യൂ വ്യാഖ്യാനിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഉപകരണത്തിന്റെ സെൻസിറ്റിവിറ്റി 10 മില്ലി വോൾട്ട്സ് പെർ ഡിഗ്രി സെൻറിഗ്രേഡ് ആണെന്ന് ഇരിക്കട്ടെ 25 മില്ലി വോൾട്ട്സ് നൽകുകയാണെങ്കിൽ താപനില 2 5 ഡിഗ്രി സെൻറിഗ്രേഡ് ആണെന്ന് നിങ്ങൾക്കറിയാം അതായത് വെറുതെ ഒരു നമ്പർ കൊണ്ട് ഹരിക്കുകയോ അല്ലെങ്കിൽ ഒരു നമ്പർ കൂടുകയോ ചെയ്താൽ നമുക്ക് വാല്യൂ ലഭിക്കും അതിനാൽ ഉപയോഗയോഗ്യതയുടെ കാര്യത്തിൽ ലീനിയറായി കാണുന്നത് വളരെ ആകർഷകമാണ് യഥാർത്ഥത്തിൽ ഇത് ലീനിയർ അല്ല അതിനാൽ ഒരു വാല്യൂ അനുമാനിക്കാൻ സഹായിക്കുന്ന ഒരു ലൈൻ നിർണയിക്കുമ്പോൾ ലൈൻ നിൽക്കുന്ന പരിധി കൂടി നിശ്ചയിക്കേണ്ടത് ആണ് കാരണം ഉപകരണം യഥാർത്ഥത്തിൽ ലൈൻ ക്യാരക്ടറിസ്റ്റിക്സ് പിന്തുടരുന്നില്ല ഇത് ഏകദേശം ആയ ഒരു വാല്യൂ ആണ് നിങ്ങൾ എളുപ്പത്തിനു വേണ്ടി ഒരാളോട് ലീനിയർ മോഡൽ ഉപയോഗിക്കാൻ പറയുമ്പോൾ അതിൽ എന്തുതരം എറർ പ്രതീക്ഷിക്കണം എന്നും പറയേണ്ടതുണ്ട് ഇത് മെഷർ ഓഫ് ലീനിയാരിറ്റി വഴിയാണ് നൽകുന്നത് ലീനിയാരിറ്റി സ്പെസിഫിക്കേഷൻ നേർരേഖയിൽ നിന്നും കാലിബ്രേഷൻ കർവിന്റെ വ്യതിയാനം നൽകുന്നു ഈ നേർരേഖ പല രീതിയിൽ കരസ്ഥമാക്കാം ഒരു മാർഗം കാലിബ്രേഷൻ പരീക്ഷണങ്ങൾ നടത്തി ഡേറ്റ പോയന്റ്സ് ലഭ്യമാക്കുക എന്നതാണ് ഉപകരണത്തിന്റെ ട്രൂ ക്യാരക്ടറിസ്റ്റിക്സ് ഇതുപോലെ ആയിരിക്കും ഒരു നേർരേഖ ഉപയോഗിച്ച് നിങ്ങളതിനെ ഏകദേശ രൂപത്തിൽ ആക്കുന്നു ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ട്രൂ വാല്യൂ ഏതു പരിധിയിൽ ആകുമെന്നും പറയണം അതിനാൽ നിങ്ങൾ ലീനിയാരിറ്റി എന്ന് പറയുമ്പോൾ ലീനിയാരിറ്റി സ്പെസിഫിക്കേഷൻ യഥാർത്ഥത്തിൽ ഒരു നോൺ ലീനിയാരിറ്റി സ്പെസിഫിക്കേഷൻ ആണ് അതായത് ലീനിയാരിറ്റിയിൽ നിന്നുമുള്ള വ്യതിയാനത്തെ ആണ് കാണിക്കുന്നത് ഒരു മികച്ച നേർരേഖയിൽ നിന്നും ഔട്ട്പുട്ട് റീഡിംഗ്ൻറെ വ്യതിയാനം എന്നാണ് ഇതിനെ നിർവചിച്ചിരിക്കുന്നത് ഇവിടെ ലീനിയാരിറ്റി സ്പെസിഫിക്കേഷൻ ചെറുതായാൽ അധികം എറർ ഉണ്ടാവില്ല എന്നാണ് നാം ഉപഭോക്താവിനോട് പറയുന്നത് ഏറ്റവും ചെറിയ വാല്യു ലഭിക്കാൻ നോക്കണം എല്ലാ ഡാറ്റയും കണക്കിലെടുത്ത് എററിൻറെ വർഗ്ഗത്തിൻറെ സങ്കലനം ഏറ്റവും ചെറുതാക്കാൻ ശ്രമിക്കണം ഇതാണ് ഡീവിയേഷൻ എന്നറിയപ്പെടുന്നത് ഇത് ഇവിടെ ലഭിക്കാൻ ഉള്ള എളുപ്പ മാർഗം ഏറ്റവും കുറഞ്ഞതും ഏറ്റവും കൂടിയതും ആയ റീഡിംഗ് എടുത്തു ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കുമെന്ന് അനുമാനിക്കുക ആണ് ഈ കർവിന്റെ ബെസ്റ്റ് ഫിറ്റ് ലൈൻ ഇത് ആയിരിക്കണമെന്നില്ല ചില കാര്യങ്ങളിൽ നമുക്ക് ഈ ലൈൻ ഉപയോഗിക്കാം ഈ ഡീവിയേഷൻ ആണ് യഥാർത്ഥത്തിൽ നോൺ ലീനിയാരിറ്റി ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉള്ളത് അതിനാൽ ലീനിയാരിറ്റി പാക്ക് യഥാർത്ഥത്തിൽ ലൈനിൽ നിന്നും ഉള്ള ഡീവിയേഷൻ ആണ് അടുത്തതായി സെൻസിറ്റിവിറ്റിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് സെൻസിറ്റിവിറ്റി യഥാർത്ഥത്തിൽ ലൈനിന്റെ സ്ലോപ് ആണ് നിങ്ങൾക്ക് ഒരു കാലിബ്രേഷൻ കർവ് ഉപയോഗിച്ച് ഒരു നേർരേഖ ലഭിച്ചു എന്ന് വെക്കുക ഒരു ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളതെങ്കിൽ ഒരു സെൻസിറ്റിവിറ്റി മാത്രം ആയിരിക്കും ഉണ്ടാവുക ഇത് നോൺ ലീനിയർ ആണെങ്കിൽ സ്ഥിതി വ്യത്യസ്തമായിരിക്കും ഉദാഹരണത്തിന് മൂന്ന് സെൻസിറ്റിവിറ്റി ഫിഗർസ് ഉണ്ടെന്ന് കരുതുക ഒരു സെൻസിറ്റിവിറ്റി ഫിഗർ ഈ റേഞ്ചിൽ പ്രയോഗിക്കും മറ്റൊന്ന് ലൈനിൻറെ ആവറേജ് സ്ലോപ് ആണ് ഇത് ഈ റേഞ്ചിലും മറ്റൊരു സെൻസിറ്റിവിറ്റി ഫിഗർ ഈ റേഞ്ചിലും ആണ് പ്രയോഗിക്കുക സെൻസിറ്റിവിറ്റി എന്നാൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ സ്ലോപ് ആണ് നോൺ ലീനിയാരിറ്റിയെ ആശ്രയിച്ച് നിങ്ങൾക്ക് ഒന്നിലധികം റേഞ്ചിൽ ഒന്നിലധികം സ്ലോപ് ഉപയോഗിക്കാൻ സാധിക്കും ചിലപ്പോൾ ഉപകരണങ്ങൾ ഇത് ചെയ്യാറുണ്ട് അടുത്തതായി റിപ്പീറ്റബിലിറ്റി എന്താണെന്ന് നോക്കാം ഇന്ന് നിങ്ങൾ തിളക്കുന്ന വെള്ളത്തിൻറെ താപം അളക്കുന്നു എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഒരു റീഡിങ് ലഭിക്കുന്നു നാളെയും ഇതേ പ്രവർത്തി ആവർത്തിക്കുമ്പോൾ ഇത് കൃത്യമായി തലേദിവസത്തെ റീഡിംഗിന് തുല്യമായി ലഭിക്കണമെന്ന് ഇല്ല ഏറെക്കുറെ അടുത്തെത്തുന്ന ഒരു വില ആയിരിക്കും ഇങ്ങനെ ഒന്നിലധികം റീഡിങ് എടുക്കുമ്പോൾ അടുത്തുള്ള വാല്യൂസ് ലഭിച്ചാൽ ഉപകരണത്തെ റിപ്പീറ്റബിൾ അല്ലെങ്കിൽ പ്രിസൈസ് എന്ന് വിളിക്കാം ഒരു ഉപകരണത്തിൻറെ റിപ്പീറ്റബിലിറ്റി എന്നാൽ അളക്കാവുന്ന കാര്യം ആവർത്തിച്ചു അളക്കുമ്പോൾ എത്ര അടുത്തുവരുന്നു എന്നുള്ളതാണ് അടുത്തതായി റെസല്യൂഷൻ എന്താണെന്ന് നോക്കാം ഔട്ട്പുട്ടിൽ ശ്രദ്ധിക്കപ്പെടുന്ന മാറ്റം വരാനായി ഇൻപുട്ടിൽ നൽകേണ്ട ഏറ്റവും കുറഞ്ഞ മാറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏതാണ് ശ്രദ്ധിക്കപ്പെടുന്ന മാറ്റം ഉദാഹരണത്തിന് ഒരു ക്ലിനിക്കൽ തെർമോമീറ്റർ ഉണ്ടെങ്കിൽ 01 ഡിഗ്രി ഫാരൻഹീറ്റ് മാറ്റം നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസർൻറെ റസല്യൂഷൻ 0 2 ഡിഗ്രി സെൻറിഗ്രേഡ് ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ മാറ്റം നിരീക്ഷിക്കാൻ സാധിക്കും അടുത്തതായി സെൻസർ സിസ്റ്റത്തിലെ ഡെഡ് സോൺ എന്താണെന്ന് നോക്കാം ഉദാഹരണത്തിന് മെക്കാനിക്കൽ വ്യവസ്ഥകളിൽ ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട് ഇത് താപനില ഈർപ്പം തുടങ്ങിയ ഘടകങ്ങളെയും ആശ്രയിച്ചാണിരിക്കുന്നത് ഒരു അമ്മീറ്ററിൻറെ കാര്യമെടുത്താൽ പ്രത്യേക അളവിൽ കറൻറ് കടന്നു വരുന്നതു വരെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മറികടക്കാനുള്ള ട്ടോർഖ് ലഭ്യമാകുന്നില്ല അതിനാൽ നീഡിൽ ചലിക്കുന്നില്ല ഡെഡ് സോൺ എന്നാൽ ഔട്ട്പുട്ട് 0 യിൽ നിർത്തുന്ന വേരിയബിളിൻറെ ഏറ്റവും വലിയ വാല്യു ആണ് 0 യിൽ നിന്നും ഈ വാല്യൂ വരെ ഉപകരണത്തിൽ ഒരു റീഡിംഗും ഉണ്ടായിരിക്കുന്നതല്ല ഡെഡ് സോൺ റസല്യൂഷൻ ഇവയിൽ എന്താണ് വ്യത്യാസം ഡെഡ് സോൺ 0 മുതലുള്ള റസല്യൂഷൻ ആണ് അതേസമയം റസല്യൂഷൻ 24 മുതൽ 24 1 വരെ 24 1മുതൽ 24 2 വരെ ആണ് ഉണ്ടാകുന്നത് ഡെഡ് സോൺ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പോലെയുള്ള ഘടകങ്ങൾ കാരണമാണ് ഉണ്ടാകുന്നത് അതേപോലെ ചിലപ്പോൾ ഉപകരണങ്ങളിൽ ഹിസ്റ്ററിസിസ് ഉണ്ടാകാറുണ്ട് വർദ്ധിക്കുന്ന ക്രമത്തിലുള്ള ഇൻപുട്ട്സ് ഉപയോഗിച്ച് ഒരു സെറ്റ് റീഡിങ് ലഭിക്കും ഉദാഹരണത്തിന് 10 ഡിഗ്രി സെൻറിഗ്രേഡ് 20 ഡിഗ്രി സെൻറിഗ്രേഡ് 30 ഡിഗ്രി സെൻറിഗ്രേഡ് എന്നിങ്ങനെ അതേസമയം ക്രമം കുറഞ്ഞുവരുന്ന ഇൻപുട്ട്സ് ഉപയോഗിച്ച് മറ്റൊരു സെറ്റ് റീഡിങ് ലഭിക്കും ഈ രണ്ടു റീഡിങ്സും തികച്ചും വ്യത്യസ്തമായിരിക്കും ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഉപകരണത്തിന് ഹിസ്റ്ററിസിസ് ഉണ്ട് പറയപ്പെടുന്നു ഗിയർ ബാക് ലാഷ് കാന്തിക ഘടകങ്ങൾ ഇലാസ്തികത തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് ഹിസ്റ്ററിസിസ് ഉണ്ടാകുന്നത് ഈ ചിത്രത്തിൽ X ൻറെ വാല്യൂ കൂടുകയാണെങ്കിൽ അതിൽ നിന്നും ലഭിക്കുന്ന റീഡിങ് ഈ കർവ് പിന്തുടരുന്നു അതേസമയം X ൻറെ വാല്യൂ കുറയുകയാണെങ്കിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു കർവ് ആണ് പിന്തുടരുന്നത് ഒരു ഉപകരണം ഇത്തരം പ്രവർത്തന രീതിയാണ് കാഴ്ചവെക്കുന്നത് എങ്കിൽ ഇതിന് ഹിസ്റ്ററിസിസ് ഉണ്ട് എന്ന് പറയാം ഉപകരണത്തിന് ഒരു കാലിബ്രേഷൻ കർവ് ഉണ്ടായിരിക്കും പക്ഷേ ഉപകരണത്തിലെ റീഡിങ് കാലിബ്രേഷൻ കർവുമായി യോജിക്കണം എന്നില്ല ഒരു അമ്മീറ്റർ ഒരു പ്രത്യേക സ്കെയിലിന് അനുസരിച്ചായിരിക്കും പ്രവർത്തിക്കേണ്ടത് പക്ഷേ നിങ്ങൾ 1 ആമ്പിയർ കറൻറ് കടത്തിവിട്ടാൽ നീഡിൽ കൃത്യമായി 1 ആമ്പിയറിൽ തന്നെ നിൽക്കണമെന്നില്ല ഇതാണ് എറർ എറർ 2 വ്യത്യസ്ത തരത്തിൽ ഉണ്ട് ഉപകരണത്തെ ലീനിയർ ആയി കരുതുന്നതിനാൽ എറർ രണ്ടു തരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു ആദ്യത്തേത് ബയാസ് അല്ലെങ്കിൽ ഓഫ്സെറ്റ് ആണ് ഇതൊരു കോൻസ്റ്റന്റ് എറർ ആണ് ഇത് റേഞ്ചിൽ നീളെ നിലനിൽക്കുന്നതാണ് ഇത് ചിലപ്പോൾ 0 5 ആയിരിക്കും കറൻറ് 2 ആമ്പിയർ ആയിരിക്കുമ്പോൾ റീഡിങ് 2 5 ആണ് കാണിക്കുക കറൻറ് 3 ആമ്പിയർ ആയിരിക്കുമ്പോൾ റീഡിങ് 3 5 ആണ് കാണിക്കുക കറൻറ് 10 ആയിരിക്കുമ്പോൾ റീഡിങ് 10 5 ആണ് കാണിക്കുക അതായത് 0 5 ആമ്പിയർ ആണ് ഇവിടത്തെ ബയാസ് സാധാരണ അമ്മീറ്ററുകളിൽ ഇത്തരം ബയാസ് സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ച് ശരിയാക്കാൻ സാധിക്കും ഇവയെ സീറോ അഡ്ജസ്റ്റ് എന്നും വിളിക്കുന്നു അടുത്തതായി ഗെയിൻ എറർ ആണ് നമുക്ക് സ്കെയിലിൽ കാണിച്ചിരിക്കുന്ന നോമിനൽ സെൻസിറ്റിവിറ്റിയും ഉപകരണത്തിൻറെ യഥാർത്ഥത്തിലുള്ള സെൻസിറ്റിവിറ്റിയും ഉണ്ട് ഉപകരണത്തിൻറെ യഥാർത്ഥത്തിലുള്ള സെൻസിറ്റിവിറ്റി ആദ്യത്തേതിൽ നിന്ന് വ്യതിചലിക്കും ഇതിനെയാണ് സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഗെയിൻ എറർ എന്നു വിളിക്കുന്നത് ഇതുകാരണം ഗെയിൻ എറർ കൊണ്ടുള്ള റീഡിങ്ലെ എറർ റീഡിംഗിന് ആനുപാതികമായിരിക്കും നിങ്ങൾ 20 ഡിഗ്രി സെൻറിഗ്രേഡ് അളക്കുമ്പോൾ ഗെയിൻ എറർ മൂലമുള്ള എറർ പകുതിയായി 10 ഡിഗ്രി സെൻറിഗ്രേഡ് ആകുന്നു അതിനാൽ എറർ പലതരത്തിലുണ്ട് സെൻസറിലും ഉപകരണങ്ങളിലും ഇവ ഇലക്ട്രോണിക് സിഗ്നൽ കണ്ടീഷനിംഗ് ഉപയോഗിച്ച് തിരുത്താൻ ആകും നിങ്ങൾക്ക് ഒരു സീറോ എറർ ആണ് ഉള്ളതെങ്കിൽ അത് ഒരു ബയാസ് ആണ് അതേസമയം സ്ലോപ് എറർ ആണ് ഉള്ളതെങ്കിൽ അതൊരു ഗെയിൻ എറർ ആണ് അടുത്തത് ഡ്രിഫ്റ്റ് ആണ് തിരുത്തലുകൾ വരുത്തിയാലും കാലിബ്രേഷൻ ചെയ്യുമ്പോൾ ബയാസ് ഗെയിൻ എറർ എന്നിവ താപനില സമയത്തിൻറെ മാറ്റം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് വരാം ഇവ വികസിക്കുന്ന തോതിനെ ഡ്രിഫ്റ്റ് ഉപയോഗിച്ചാണ് വിലയിരുത്തുന്നത്